ആശംസകൾ മൊഡ്യൂൾ 3 യൂണിറ്റ് 12 ലേക്ക് സ്വാഗതം നിർദ്ദേശത്തിലേക്കുള്ള പ്രശ്ന അധിഷ്ഠിത സമീപനം മുമ്പത്തെ മൊഡ്യൂളിൽ പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം ഫലമായുണ്ടാകുന്ന ഒരു സമീപനം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പ്രോജക്റ്റ് അധിഷ്ഠിത പഠനത്തിന് സഹായിക്കുന്ന ഒരു സമീപനം എന്നിവ ഞങ്ങൾ മനസ്സിലാക്കി ഈ യൂണിറ്റിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലെ മറ്റൊരു ജനപ്രിയ സമീപനമായ നിർദ്ദേശങ്ങളോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം ഞങ്ങൾ മനസ്സിലാക്കും ഈ സമീപനങ്ങളുടെ ആവിർഭാവത്തിനായുള്ള പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം പ്രശ്ന അധിഷ്ഠിത സമീപനം അനുഭവ സമീപനം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഈ ദിവസങ്ങളിൽ കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നതാണ് പശ്ചാത്തലം എല്ലാ തല്പരകക്ഷികളിൽ നിന്നുമുള്ള പ്രതീക്ഷകൾ വളരെ വേഗത്തിൽ മാറുകയാണ് വ്യവസായവും അക്രഡിറ്റേഷൻ ബോഡികളും സമൂഹവും പൊതുവേ ആവശ്യപ്പെടുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ പരിപാടിയുടെ അവസാനം സാങ്കേതിക പരിജ്ഞാനം മനഃ പാഠമാക്കിയത് മാത്രമല്ല ഉയർന്ന നിലയിലുള്ള കഴിവുകളും പ്രകടിപ്പിക്കണം ഈ പ്രതീക്ഷകൾ എല്ലാ തല്പരകക്ഷികളിൽ നിന്നും കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ വ്യക്തമാക്കിയ പ്രോഗ്രാം ഫലങ്ങളിൽ ഈ പ്രതീക്ഷകളിൽ ആശയവിനിമയം ടീംവർക്ക് ആജീവനാന്തപഠനം തുടങ്ങിയ പ്രൊഫഷണൽ പരിശീലനത്തിന്റെ വശങ്ങൾ ഉൾപ്പെടുന്നു ഈ ഫലങ്ങളെല്ലാം വളരെ പ്രാധാന്യമർഹിക്കുന്നു സാങ്കേതിക യോഗ്യതാവശങ്ങളിൽ നിന്ന് മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽപ്പോലും എൻബിഎ വ്യക്തമാക്കിയ പ്രോഗ്രാം ഫലങ്ങളിൽ പ്രശ്ന രൂപീകരണം സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുക ഗവേഷണ സാഹിത്യം എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ സ്വയം നിരീക്ഷണം സ്വയം നിയന്ത്രിത പഠനം ഉൾപ്പെടെയുള്ള മെറ്റാകോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് വളരെ വിലമതിക്കുന്നു നിലവിലെ ജോലിസ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ഈ ദിശയിൽ അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല യഥാർത്ഥ തൊഴിലിൽ നേരിടുന്ന മിക്ക പ്രശ്നങ്ങളും അവ്യക്തവും തുറന്നതും സങ്കീർണ്ണവുമാണ് വ്യവസായത്തിൽ നിന്നുള്ള നിലവിലെ ആവശ്യം അത്തരം യാഥാർത്ഥ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കണമെന്നും അത്തരം യാഥാർത്ഥ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രശ്നം അവ്യക്തമായിരിക്കുന്ന എഞ്ചിനീയറിംഗ് വ്യവസ്ഥകളിൽ പ്രശ്നം രൂപപ്പെടുത്തുന്നതിനുള്ള നൈപുണ്യവും ഉൾപ്പെടുമെന്നും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തോടുള്ള പരമ്പരാഗത സമീപനങ്ങളാൽ ഈ ആശങ്കകൾ പരിഹരിക്കാനാവില്ല മേൽപ്പറഞ്ഞ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനായി പ്രോജക്ടുകൾ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങൾ പ്രശ്ന അധിഷ്ഠിത നിർദ്ദേശങ്ങൾ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് സമീപനങ്ങളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൂടുതലായി തിരിയുന്നു അവസാന യൂണിറ്റിലെ പ്രോജക്റ്റ് അധിഷ്ഠിത നിർദ്ദേശങ്ങൾ ഞങ്ങൾ ചർച്ചചെയ്തു ഈ യൂണിറ്റിലെ പ്രശ്ന അധിഷ്ഠിത നിർദ്ദേശങ്ങൾ ഞങ്ങൾ പരിശോധിക്കും അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദേശങ്ങൾ അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ ഇത് നോക്കും പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം എന്ന പദം ഈ ദിവസങ്ങളിൽ നിരവധി വിശാലമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു വാസ്തവത്തിൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിലൂടെ സമാനമായ ഒരു സാഹചര്യം ഞങ്ങൾ കണ്ടു നിരവധി വ്യത്യസ്ത നടപ്പാക്കലുകൾക്ക് ഒരേ പേര് ലഭിക്കുന്നു ഇവിടെയും നിരവധി വ്യത്യസ്ത സമീപനങ്ങൾ നിരവധി നിർദ്ദിഷ്ട നടപ്പാക്കലുകൾ പ്രശ്ന അധിഷ്ഠിത സമീപനമായി ടാഗുചെയ്യപ്പെടുന്നു ചിലപ്പോൾ ഈ പദം അന്വേഷണ അധിഷ്ഠിത സമീപനം സജീവമായ പഠന സമീപനം അനുഭവപരിചയ സമീപനം തുടങ്ങിയ പദങ്ങൾക്ക് പരസ്പരം മാറ്റി ഉപയോഗിക്കാറുണ്ട് കൂടാതെ പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് സാഹിത്യത്തിലെ ഏറ്റവും സാധാരണമായ പദം പ്രബോധനത്തോടുള്ള സമീപനമാണ് വിദ്യാർത്ഥികളുടെ പ്രശ്ന അധിഷ്ഠിത പഠനത്തിന് കാരണമാകുന്ന എന്ന അർത്ഥത്തിൽ ആണ് ഞങ്ങൾ പ്രശ്നഅധിഷ്ഠിത നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുന്നത് പ്രോജക്റ്റ് അധിഷ്ഠിത നിർദ്ദേശങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉപയോഗിച്ച അതേ ആശയമാണ് അതായത് വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റ് അധിഷ്ഠിത പഠനത്തിന് സൌകര്യങ്ങളോ ഫലങ്ങളോ നൽകുന്ന നിർദ്ദേശത്തിനുള്ള സമീപനം പിബിഐയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തെ സുഗമമാക്കുന്ന അല്ലെങ്കിൽ ഫലമുണ്ടാക്കുന്ന നിർദ്ദേശങ്ങളിലേക്കുള്ള ഒരു സമീപനമാണ് പിബിഎൽ പ്രശ്നഅധിഷ്ഠിത പഠനവും പിബിഐ പ്രബോധനത്തോടുള്ള പ്രശ്ന അധിഷ്ഠിത സമീപനം കാര്യക്ഷമതയെക്കാൾ മൂല്യ ഫലപ്രാപ്തി എന്നിവയാണ് പൊതുവെ വിലമതിക്കുന്നത് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് സന്ദർഭങ്ങളിൽ നടപ്പാക്കാൻ പിബിഐ ഒരു പരിധിവരെ പ്രാപ്തിയില്ലാത്തതെന്ന് ഞങ്ങൾ കാണും വാസ്തവത്തിൽ ലോകമെമ്പാടുമുള്ള നിരവധി സ്ഥാപനങ്ങളിൽ പോലും പിബിഐ നടപ്പാക്കൽ അത്ര കാര്യക്ഷമമായിരിക്കില്ലെന്ന് അവർ കണ്ടെത്തുന്നു പക്ഷേ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഫലപ്രാപ്തിയിലാണ് പിബിഐ വിദ്യാർത്ഥികളുടെ മികച്ച പഠനത്തിലേക്ക് നയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ചരിത്രപരമായി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിബിഐ വികസിപ്പിച്ചത് 1969 ൽ കാനഡയിലെ മക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലും നഴ്സിംഗ് പോലുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളുമായി ബന്ധപ്പെട്ട മേഖലകളിലും പിബിഐ സ്വീകരിക്കുന്നത് കൂടുതലായിരുന്നു പ്രബോധനത്തോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിന് നിരവധി നിർവചനങ്ങൾ ഉണ്ട് എന്നാൽ നിലവിലെ ഒരു നല്ല നിർവചനം " മുന്നേറുന്ന ഒരു സജീവമായ പഠനവും പഠന കേന്ദ്രീകൃത സമീപനവും ഘടനാപരമായ പ്രശ്നങ്ങൾ പഠന പ്രക്രിയയുടെ ആരംഭ പോയിന്റായും ആങ്കറായും ഉപയോഗിക്കുന്നു " സൂചകപദങ്ങളിലൊന്ന് ഞങ്ങൾ ഘടനാപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഇത് പഠിതാവിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് മാത്രമല്ല ഇത് സജീവമായ പഠനവുമാണ് "പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠന നവീകരണം 21 ാം നൂറ്റാണ്ടിലെ പവർ ലേണിംഗിന് പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നത്" ഈ പ്രത്യേക റഫറൻസ് നൽകുന്ന ലേഖനമാണിത് തുല്യമായി പ്രബലമായ മറ്റ് നിർവചനങ്ങളുണ്ട് എന്നാൽ ഇവയെല്ലാം ഊന്നിപ്പറയുന്നത് സജീവമായ പഠനം പഠിതാവിനെ കേന്ദ്രീകരിച്ചുള്ള സമീപനം ഏറ്റവും പ്രധാനമായി ഘടനാപരമായ പ്രശ്നമുള്ള അന്വേഷണത്തി൯്റെ ആരംഭം എന്നിവയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും അനുബന്ധ മേഖലകളിലും വളരെ പ്രചാരമുള്ളതാണ് മാത്രമല്ല ഇത് ആ മേഖലകളിൽ മറ്റ് നിരവധി പ്രോഗ്രാമുകളിൽ വളരെ വ്യാപകമായി ഉപയോഗിച്ചുവരുന്നു എഞ്ചിനീയറിംഗ് ആർട്സ് ഹ്യുമാനിറ്റി ബിസിനസ് മാനേജ്മെന്റ് നിയമം എന്നിവയുൾപ്പെടെ മറ്റ് നിരവധി ഡൊമെയ്നുകളിൽ ഇത് ഉപയോഗിക്കുന്നു പരീക്ഷിക്കുന്നു പ്രശ്ന അധിഷ്ഠിത സമീപനത്തിനുള്ള പ്രധാന തത്വങ്ങൾ മെഡിക്കൽ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്നിങ്ങനെയുള്ള പ്രശ്ന അധിഷ്ഠിത സമീപനം നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ച നിർദ്ദിഷ്ട ഡൊമെയ്ൻ എന്തുതന്നെയായാലും ഇവ വളരെ വിശാലമാണ് പ്രശ്ന അധിഷ്ഠിത സമീപനത്തിനുള്ള സാർവത്രിക പ്രധാനതത്ത്വങ്ങൾ നിർദ്ദിഷ്ട സാഹചര്യത്തെ ആശ്രയിച്ച് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകാം പിന്നീടുള്ള ഭാഗങ്ങളിൽ ഈ വ്യതിയാനങ്ങളിൽ ചിലത് നമുക്ക് നോക്കാം എന്നാൽ പ്രശ്ന അധിഷ്ഠിത സമീപനത്തിനുള്ള സാർവത്രിക പ്രധാന തത്ത്വങ്ങൾ ഇവയാണ് പഠിതാക്കൾക്ക് ആധികാരിക പ്രശ്നങ്ങൾ രൂപപ്പെടുത്തുകയും നൽകുകയും ചെയ്യുക ഇവിടെയുള്ള സൂചകപദം ആധികാരിക പ്രശ്നങ്ങൾ ആണ് മാത്രമല്ല പ്രശ്നങ്ങൾ ഉദ്ദേശിച്ച ഫലങ്ങളുമായി പൊരുത്തപ്പെടുകയും ക്രോസ് വിജ്ഞാനശാഖാചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയും വേണം ഇടുങ്ങിയ നിലവറകളിൽ ഒതുങ്ങുന്നതിനുപകരം അവർ ക്രോസ് വിജ്ഞാനശാഖാചിന്തയെ പ്രോത്സാഹിപ്പിക്കണം രണ്ടാമത്തെ പ്രധാന തത്ത്വം പഠിതാവിന്റെ മെറ്റാകോഗ്നിറ്റീവ് കഴിവുകളുടെയും അവരുടെ പ്രശ്നപരിഹാരശേഷിയുടെയും വികാസത്തെ സഹായിക്കുന്ന ഒരു അദ്ധ്യാപകന്റെ പങ്ക് ടീച്ചർ വഹിക്കുന്നു ഈ തത്വങ്ങളെല്ലാം ഞങ്ങൾ ഉടൻ വിശദീകരിക്കും മൂന്നാമത്തെ തത്ത്വം പഠന ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്ന വിലയിരുത്തലുകൾ നിർബന്ധമായും ആവശ്യമാണ് കൂടെ പഠന അനുഭവത്തിൽ നിന്ന് നേടിയ പ്രധാന ആശയങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള സമഗ്രമായ വിശദീകരണമാണ് നാലാമത്തെ തത്ത്വം ആധികാരിക പ്രശ്നങ്ങൾ പഠിതാക്കൾ തയ്യാറാക്കുന്ന പരിതസ്ഥിതിക്ക് അനുസൃതമായ വൈജ്ഞാനിക ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ പ്രതിഫലിപ്പിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പഠിതാക്കൾ അവരുടെ തൊഴിലിൽ പ്രവേശിക്കുമ്പോൾ അവർ അഭിമുഖീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുമായി സമാനമായിരിക്കണം പ്രശ്നങ്ങൾ പ്രശ്നം സമാനമായിരിക്കണമെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല പക്ഷേ വൈജ്ഞാനിക സ്വഭാവം തികച്ചും സമാനമായിരിക്കണം അതിനാലാണ് ഞങ്ങൾ അവയെ ആധികാരിക പ്രശ്നങ്ങൾ എന്ന് വിളിക്കുന്നത് പ്രശ്നങ്ങൾ അവരുടെ വൈജ്ഞാനിക സ്വഭാവം ഈ ആളുകൾ അവരുടെ തൊഴിലിൽ പ്രവേശിക്കുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളുടെ വൈജ്ഞാനിക സ്വഭാവത്തിന് സമാനമാണ് പ്രശ്നം ഘടനാപരമായി മോശമായിരിക്കണം പഠിതാക്കൾക്ക് അവരുടെ തൊഴിലിൽ യഥാർത്ഥത്തിൽ നേരിടേണ്ടിവരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണം മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിൽ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം മോശമായ ഘടനാപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിതാക്കൾക്ക് പരിശീലനം നൽകണം വ്യക്തിഗതമായും ഒരു ടീം എന്ന നിലയിലും പഠിതാക്കളെ വെല്ലുവിളിക്കാൻ പര്യാപ്തമായ പ്രശ്നം ആയിരിക്കണം അതേസമയം പഠിതാക്കൾക്ക് അവരുടെ പ്രചോദനം നഷ്ടപ്പെടുന്ന തരത്തിൽ പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ടായിത്തീർന്നാൽ അത് വിപരീത ഫലമുളവാക്കും ആ വശവും ഞങ്ങൾ ചർച്ച ചെയ്യും എന്നാൽ പഠിതാക്കളെ വെല്ലുവിളിക്കാൻ പര്യാപ്തമായ പ്രശ്നം സങ്കീർണ്ണമായിരിക്കേണ്ടത് പ്രധാനമാണ് പ്രശ്നങ്ങൾ സമകാലികവും വിദ്യാർത്ഥികളെ ആവേശം കൊള്ളിക്കുന്നതും ആയിരിക്കണം അത് പിബിഐയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഉദ്ദേശിച്ച പഠനഫലങ്ങൾക്ക് അനുസൃതമായി ഡൊമെയ്നും ഡൊമെയ്നിലെ പ്രശ്നങ്ങളും ഇൻസ്ട്രക്ടർ തിരഞ്ഞെടുക്കുകയും സാധാരണയായി വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്യുന്നു അതായത് പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കുന്ന തലത്തിൽ നിയന്ത്രണം ഇൻസ്ട്രക്ടറുടെ പക്കലുണ്ട് ഡൊമെയ്നുകളും ഡൊമെയ്നിലെ പ്രശ്നങ്ങളും ഇൻസ്ട്രക്ടർ തിരഞ്ഞെടുത്തു ഉയർന്ന തലചിന്തയെ പിന്തുണയ്ക്കുന്നതിനായാണ് പിബിഐ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മാത്രമല്ല അടിസ്ഥാന കഴിവുകൾ പഠിപ്പിക്കുന്നതിന് ഇത് ഉചിതമല്ല അതിനർത്ഥം പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ ആരംഭിക്കുന്നതിനുമുമ്പ് ഉയർന്ന തലകഴിവുകൾ ആവശ്യപ്പെടുന്ന അടിസ്ഥാന കഴിവുകൾ മുമ്പ് ആവശ്യമെങ്കിൽ നിർദ്ദേശങ്ങളോട് കൂടുതൽ നേരിട്ടുള്ള സമീപനം ഉപയോഗിച്ച് പഠിപ്പിച്ചിരിക്കണം ഉയർന്ന തലചിന്തയെ പിന്തുണയ്ക്കുന്നതിനാണ് പിബിഐ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രശ്നവുമായി ഇടപഴകുന്ന പ്രക്രിയ ആരംഭിക്കുന്നതിന് പഠിതാക്കൾക്ക് കുറച്ച് അറിവ് ഉണ്ടായിരിക്കണം പ്രബോധനത്തോടുള്ള നേരിട്ടുള്ള സമീപനം ഉൾപ്പെടെയുള്ള മറ്റ് സമീപനങ്ങൾ ഉപയോഗിച്ച് ഇൻസ്ട്രക്ടർ ചില പ്രാരംഭ നിർദ്ദേശങ്ങൾ നൽകേണ്ടിവരും കൂടാതെ പ്രക്രിയ ആരംഭിക്കുന്നതിന് അധ്യാപകന് പഠന സാമഗ്രികളും നൽകേണ്ടതുണ്ട് പ്രോജക്റ്റ് അധിഷ്ഠിത നിർദ്ദേശങ്ങൾ പോലെ പിബിഐയുടെ വിജയത്തിന് ഇൻസ്ട്രക്ടറുടെ പങ്ക് വളരെ നിർണായകമാണ് ഇൻസ്ട്രക്ടറുടെ പങ്ക് പഠനത്തിനുള്ള ഒരു ഫെസിലിറ്റേറ്റർ എന്ന നിലയിലാണ് ഉള്ളടക്ക ദാതാവ് എന്ന നിലയിലല്ല വാസ്തവത്തിൽ പിബിഐയിൽ ട്യൂട്ടർ പ്രസക്തമായ ഡൊമെയ്നിൽ വിദഗ്ദ്ധനായിരിക്കില്ല എന്നതാണ് പൊതുവായ തത്ത്വചിന്ത എന്നാൽ അധ്യാപകർ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കണം അതിനാൽ ട്യൂട്ടർ ഡൊമെയ്നിലെ ഒരു വിദഗ്ദ്ധൻ പോലും ആയിരിക്കില്ല റോൾ ഒരു പരിശീലകന്റെ പോലും അല്ല ഇത് പ്രാഥമികമായി ഒരു അദ്ധ്യാപകന്റെ റോളാണ് ട്യൂട്ടർ പഠിതാക്കൾ അവരുടെ ജോലി നേരത്തേ നിർത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആവർത്തിച്ച് അന്വേഷിക്കണം വിദ്യാർത്ഥികൾ എത്തിച്ചേർന്ന നിഗമനങ്ങളെ ചോദ്യം ചെയ്യുക പഠിതാക്കൾ നടത്തിയ അനുമാനങ്ങൾ പഠിതാക്കൾ ഉപയോഗിക്കുന്ന റഫറൻസുകൾ ഇവയെല്ലാം ട്യൂട്ടർ ആവർത്തിച്ച് ചോദ്യം ചെയ്യണം ഈ അനുമാനം ശരിയാണോ സാധുതയുള്ളതാണോ നിങ്ങൾ ശേഖരിച്ച തെളിവുകൾ ഈ നിഗമനത്തെ പിന്തുണയ്ക്കാൻ കഴിയുമോ ഇത്തരത്തിലുള്ള സൂക്ഷ്മ പരിശോധന ആഴത്തിലുള്ള വാദങ്ങളേക്കാൾ ആഴത്തിലുള്ള കഴിവുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ പ്രശ്നവുമായി ഇടപഴകുന്നുവെന്ന് ഉറപ്പാക്കും ട്യൂട്ടർ പഠിതാക്കളെ മെറ്റാകോഗ്നിറ്റീവ് തലത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും സ്വയം നിയന്ത്രിത പഠനത്തിന്റെ വികസനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പിബിഐയിൽ സ്ഥാനക്കയറ്റം നേടുന്ന കഴിവുകളും ഇവയാണ് പഠിതാക്കൾക്ക് അവരുടെ സ്വന്തം പുരോഗതി നിരീക്ഷിക്കാനും സ്വന്തം പഠന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും അവരുടെ സ്വന്തം അനുമാനങ്ങളെ വിശകലനം ചെയ്യാനും വിമർശിക്കാനും കഴിയണം ഗ്രൂപ്പിന്റെ നടത്തിപ്പിലും ഇൻസ്ട്രക്ടർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഒരു ഗ്രൂപ്പായി ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നാൽ ഒരു ഗ്രൂപ്പിന്റെ ആശയം തന്നെ പഠിതാക്കൾക്ക് അത്ര സുഖകരമല്ലായിരിക്കാം ഇൻസ്ട്രക്ടർ സുഗമമാക്കേണ്ട ഒരു ഗ്രൂപ്പിന്റെ ആശയം ആ ഗ്രൂപ്പിലെ എല്ലാ പഠിതാക്കളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഗ്രൂപ്പ് നടത്തിപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എല്ലാ പഠിതാക്കൾക്കും പ്രശ്നത്തെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യം പ്രശ്നപരിഹാര പ്രക്രിയ ഗവേഷണത്തിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ പ്രശ്ന പരിഹാരത്തിനുള്ള ചുമതല നിർദ്ദിഷ്ട പരിഹാരം എന്നിവ വ്യക്തമാക്കാൻ കഴിയണം ഗ്രൂപ്പിലെ എല്ലാ പഠിതാക്കളും ഈ കഴിവുകൾ നേടിയെടുക്കണം എന്നതാണ് പ്രധാന കാര്യം കാരണം ഇവയെല്ലാം പിബിഐ വഴി പഠിതാക്കൾ നേടേണ്ട കഴിവുകളുടെ ഭാഗമാണ് ധാരണയുടെ ആവിഷ്കരണം ശേഖരിച്ച വിവരങ്ങളുടെ പ്രസക്തി വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ ഇവയെല്ലാം ഗ്രൂപ്പിലെ ഓരോ അംഗവും വ്യക്തമാക്കണം ഗ്രൂപ്പിന് ഒരു വക്താവ് ഉള്ളത് പോലെയല്ല ഈ വ്യക്തി ഈ നിഗമനങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നത് ഓരോ പങ്കാളിയും ഗ്രൂപ്പിലെ ഓരോ അംഗവും ഈ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുകയും ഇൻസ്ട്രക്ടർ ഈ പ്രക്രിയ സുഗമമാക്കുകയും വേണം പ്രശ്നം വളരെ സങ്കീർണ്ണവും ആവശ്യമായ വിവരങ്ങളും പഠിതാക്കൾക്ക് എളുപ്പത്തിൽ ലഭ്യവുമല്ലെങ്കിൽ പ്രശ്നം പഠിതാക്കളെ ബോറടിപ്പിക്കുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയണം ചില ഘട്ടങ്ങളിൽ പഠിതാക്കളിൽ താൽപര്യമുണർത്താതാക്കുവാനും സാധ്യതയുണ്ട് അവർ വിരസത അനുഭവിക്കുന്നു അല്ലെങ്കിൽ അവർ നിരാശരായിത്തീരുകയും പ്രശ്നവുമായി ഇടപഴകാൻ ആവശ്യമായ അഭിനിവേശം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു പഠിതാക്കളുടെ ഈ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഇൻസ്ട്രക്ടർക്ക് കഴിയണം ഇത് ഇതുപോലെ സജ്ജമാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടർ അതിനനുസരിച്ച് പ്രശ്നം മോഡുലേറ്റ് ചെയ്യണം വിവരങ്ങളുടെ ചില ഭാഗങ്ങൾ പഠിതാക്കൾക്ക് നേരിട്ട് അല്ലെങ്കിൽ ചെറുതായി നൽകാം പ്രശ്നത്തിന്റെ അവ്യക്തത അല്ലെങ്കിൽ പ്രശ്നത്തിന്റെ സങ്കീർണ്ണത കുറയ്ക്കുക ഇത് കുറച്ച് തന്ത്രപരമാണ് പക്ഷേ പിബിഐ വിജയിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം വിദ്യാർത്ഥികൾക്ക് ശരിക്കും താൽപ്പര്യം നഷ്ടപ്പെടുകയും തുടർന്ന് മുഴുവൻ പ്രക്രിയയും പരാജയപ്പെടുകയും ചെയ്യും അതിനാൽ പ്രശ്നം ഗ്രൂപ്പിനെ നിരാശപ്പെടുത്തുമ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും ഇൻസ്ട്രക്ടർക്ക് കഴിയണം ഇതിന് ഇൻസ്ട്രക്ടർ മുഴുവൻ പ്രക്രിയയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് വിലയിരുത്തൽ ഫോർമ്മേറ്റിവ് വിലയിരുത്തലും സമ്മേറ്റീവ് വിലയിരുത്തലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നിർണായക പ്രവർത്തനമാണെന്ന് പല തവണ ഞങ്ങൾ പരാമർശിച്ചു എന്നാൽ പിബിഐയിൽ ഇത് പ്രത്യേകിച്ചും പ്രധാനവും സങ്കീർണ്ണവുമാണ് വിലയിരുത്തൽ ഉദ്ദേശിച്ച ഫലങ്ങളുമായി വിന്യസിക്കണം കൂടാതെ പ്രസക്തമായ ഡൊമെയ്നിലെ അറിവും നൈപുണ്യവും അതുപോലെ തന്നെ പ്രശ്നപരിഹാര കഴിവുകളും ഞങ്ങൾ വിലയിരുത്തണം ടീമിൻെ്റ നടപടിക്രമങ്ങളുടെ പ്രക്രിയ വ്യക്തിഗതമായി വിദ്യാർത്ഥികൾ ഏർപ്പെട്ടിരിക്കുന്ന പുനരാലോചന മെറ്റാകോഗ്നിറ്റീവ് ചിന്ത ഇവയെല്ലാം വിലയിരുത്തേണ്ട ഘടകങ്ങളാണ് ഇത് തീർച്ചയായും ഒരു സങ്കീർണ്ണ പ്രക്രിയയാണ് വിദ്യാർത്ഥി ടീമുകൾ അവതരിപ്പിച്ച അന്തിമ പരിഹാരത്തിന്റെ സമ്മേറ്റിവ് വിലയിരുത്തൽ കാരണം ഇൻസ്ട്രക്ടർ ശരിക്കും ഒരു ഡൊമെയ്ൻ വിദഗ്ദ്ധനായിരിക്കില്ല അല്ലെങ്കിൽ വിദ്യാർത്ഥി ടീം നിർദ്ദേശിച്ചത് സാധുവായ പരിഹാരം അല്ല അല്ലെങ്കിൽ പരിഹാരത്തിന് ഒരു വിദഗ്ദ്ധ അഭിപ്രായം ആവശ്യമാണോ ഇതിന് വിദഗ്ദ്ധരോ വിദഗ്ദ്ധരുടെ ടീമുകളോ ആവശ്യമായി വന്നേക്കാം വ്യക്തമായും ഞങ്ങൾക്ക് ഉചിതമായ തിരുത്തലുകൾ ആവശ്യമാണ് ചില സമയങ്ങളിൽ വിദ്യാർത്ഥികൾ നിർദ്ദേശിച്ച പരിഹാരം ഇരുന്ന് വിലയിരുത്താൻ ബാഹ്യരെ ക്ഷണിക്കേണ്ടതായി വന്നേക്കാം പ്രതിഫലന ജേർണലുകൾ സൂക്ഷിക്കുക പോലുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ സൂക്ഷിക്കുന്ന പ്രതിഫലന ജേർണലുകളിലൂടെ വിദ്യാർത്ഥികളുടെ മെറ്റാകോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് ആക്സസ് ചെയ്യാൻ കഴിയും അവർ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രക്രിയയിലൂടെ കടന്നുപോകുമ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള വ്യക്തിഗത ചിന്ത അവർ പ്രയോഗിക്കുന്ന യുക്തി അവർ അവരുടെ സ്വയംസിദ്ധതത്ത്വങ്ങളെ പിന്തുണയ്ക്കുന്ന രീതി ഇവയെല്ലാം ഓരോ പഠിതാവും ഒരു രേഖാമൂലമുള്ള ജേർണലിൽ രേഖപ്പെടുത്തണം ചിലപ്പോൾ അത്തരം ജേണലുകൾ സൂക്ഷിക്കുന്ന പ്രക്രിയ വിദ്യാർത്ഥികൾക്ക് പരിചിതമായിരിക്കില്ല ടീമുകൾ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നതിനുമുമ്പ് ഇൻസ്ട്രക്ടർമാർ അവർക്ക് പ്രതിഫലന ജേർണലുകൾ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ചില പരിശീലനം നൽകേണ്ടിവരാം കൂടാതെ ചില പ്രശ്നങ്ങൾ മുമ്പത്തെ മൊഡ്യൂളുകളിലും ചർച്ചചെയ്യപ്പെട്ടു പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തോടുകൂടി പ്രതിഫലന ജേർണലുകളുടെ സൂക്ഷിപ്പിനെ പറ്റി വിദ്യാർത്ഥികളെ അറിയിക്കേണ്ടതുണ്ടെന്നും ചിലപ്പോൾ അത്തരം ജേർണലുകൾ സൂക്ഷിക്കുന്നതിനുള്ള കലയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകേണ്ടിവരുമെന്നും ഞങ്ങൾ കണ്ടു ഇത്തരത്തിലുള്ള വിലയിരുത്തൽ രീതികളുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളിലുടനീളമുള്ള അനുഭവങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അദ്വിതീയ മാർഗമില്ല സ്ഥാപനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തൽ രീതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അവർക്ക് എന്താണ് ഫലിക്കുക എന്നത് അവർ ഒരു നിശ്ചിത കാലയളവിൽ തീരുമാനിക്കേണ്ടതുണ്ട് ആദ്യമായി പിബിഐ നടപ്പിലാക്കുന്ന ഫാക്കൽറ്റി അവഗണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനം "ഡീബ്രീഫിംഗ്" ആണ് കാരണം മിക്കപ്പോഴും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ ഈ സംക്ഷിപ്ത പ്രക്രിയയെക്കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും പരിചയമില്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പിബിഐയുമായി മതിയായ അനുഭവം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അവഗണിക്കപ്പെടും പിബിഐ സമീപിക്കുന്ന എല്ലാ പരിശീലകരും അവരുടെ അനുഭവത്തിലും റിപ്പോർട്ടുകളിലും ഊന്നിപ്പറഞ്ഞത് ഡീബ്രീഫിംഗ് ഒഴിവാക്കേണ്ടതില്ല പിബിഐയുടെ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കേണ്ടത് അത്യാവശ്യമാണ് പഠിച്ചത് തിരിച്ചറിയാനും വ്യഖ്യാനിക്കുവാനും ഏകീകരിക്കാനും ഇത് പഠിതാക്കളെ സഹായിക്കുന്നു എന്നതാണ് അവകാശവാദം മുമ്പത്തെ അറിവുമായി പുതിയ അറിവ് സമന്വയിപ്പിക്കാൻ പഠിതാക്കളെ സഹായിക്കുന്നു ഇവിടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു മെറിലിന്റെ പഠനത്തിന്റെ ആദ്യ തത്ത്വങ്ങളിൽ ഒന്നാണിത് നേടിയ പുതിയ അറിവ് മുമ്പത്തെ അറിവുമായി സംയോജിപ്പിക്കണം വിശദീകരണ ആവശ്യങ്ങൾക്കായി പഠന പ്രവർത്തനത്തിനിടെ ചർച്ചചെയ്ത എല്ലാ പഠനങ്ങളും ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ ഇൻസ്ട്രക്ടർമാർ തയ്യാറാക്കണം പഠന പ്രവർത്തനം നടക്കുമ്പോൾ ഇൻസ്ട്രക്ടർ ടീമുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് കുറിപ്പുകൾ തയ്യാറാക്കി ഇൻസ്ട്രക്ടർ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുന്നു ഈ നിരീക്ഷണങ്ങളും കുറിപ്പുകളും ഉപയോഗിച്ച് ഇൻസ്ട്രക്ടർമാർ ഡീബ്രീഫിംഗ് സെഷനിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തയ്യാറാക്കുകയും ടീമിലെ എല്ലാവരും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ധാരണ ആകാശചിത്രമായിപ്പോലും സംയോജനത്തിനുശേഷം അവരുടെ പഠനം ചിത്രീകരിക്കാൻ പഠിതാക്കളെ പ്രോത്സാഹിപ്പിക്കുക പുതിയ അറിവുകളെ മുൻ അറിവുകളുമായി സമന്വയിപ്പിക്കാൻ ഞങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നുവെന്നും അവിടെയാണ് പിബിഐ ൽ നിന്നുള്ള നേട്ടങ്ങൾ ഏകീകരിക്കപ്പെടുന്നതെന്നും ആശയം അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ ചർച്ച ചെയ്ത നിർദ്ദേശങ്ങളോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനവുമായി ചില സമാനതകൾ ഞങ്ങൾ കാണുന്നു ഈ രണ്ട് സമീപനങ്ങളും ചില പൊതുവായ രീതികൾ പങ്കിടുന്നുവെന്നത് ശരിയാണ് എന്നാൽ അതേ സമയം അവയും വ്യത്യസ്തമാണ് ചില യോജിപ്പുള്ള പോയിന്റുകളുണ്ട് കാര്യമായ വ്യത്യാസമുള്ള പോയിന്റുകളുമുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പ്രശ്ന അധിഷ്ഠിത സമീപനം വളരെ പ്രചാരത്തിലായി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ അവർ നടപ്പിലാക്കിയ ഇടങ്ങളിലെല്ലാം അത് ഒരുപോലെ ജനപ്രിയവും വിജയകരവുമാണോ ചില കേസ് പഠനങ്ങൾ സാഹിത്യത്തിൽ ലഭ്യമാണ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രശ്ന അധിഷ്ഠിത സമീപനങ്ങളും പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് ഈ കേസ് പഠനങ്ങൾ സാഹിത്യത്തിൽ ലഭ്യമാണ് നിങ്ങൾ അവരെ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പിബിഐയുടെ ഉത്ഭവം ഉണ്ടെന്നും അത് അനുബന്ധ മേഖലകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത് തുടരുകയാണെന്നും ഞങ്ങൾ കാണുന്നു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലെ അതിന്റെ ഉപയോഗം അത്ര വിപുലമാണെന്ന് തോന്നുന്നില്ലെങ്കിലും സാഹിത്യത്തിൽ ചില സുപ്രധാന പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ മെഡിക്കൽ വിദ്യാഭ്യാസവും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് വിദ്യാഭ്യാസവും വ്യാപിപ്പിച്ച അത്രയും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം വ്യാപിപ്പിച്ചതായി കാണുന്നില്ല ആ ഡൊമെയ്നിൽ ബിസിനസ് മാനേജുമെന്റ് പോലും പിബിഐ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ താരതമ്യേന പിബിഐ അതിന്റെ യഥാർത്ഥ മനോഭാവത്തിൽ അത്ര പ്രചാരമുള്ളതായി തോന്നുന്നില്ല പിബിഐ എന്ന പേരിൽ മറ്റ് ചില സമീപനങ്ങളുണ്ട് പക്ഷേ പിബിഐയെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കർശനമായി പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ അത്ര പ്രചാരമുള്ളതായി തോന്നുന്നില്ല എഞ്ചിനീയറിംഗ് അധ്യാപകർ പൊതുവെ പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രോജക്ടിനെ അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിൽ വിദ്യാർത്ഥികൾ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നല്ല ഇതിനർത്ഥം എന്നാൽ ഫോക്കസ് അല്പം വ്യത്യസ്തമാണ് രണ്ട് സമീപനങ്ങളും അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ നിരവധി സവിശേഷതകൾ പങ്കിടുന്നു പക്ഷേ അവ വ്യത്യസ്തമായ സമീപനങ്ങളാണ് അവയിൽ കാര്യമായ വ്യത്യാസമുള്ള ചില പോയിൻറുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ഷേ അവ വ്യത്യാസപ്പെടുന്ന മറ്റ് പ്രശ്നങ്ങളുണ്ട് പക്ഷേ വ്യത്യാസങ്ങൾ ഗണ്യമായ പ്രശ്നങ്ങളാണിവ ഈ സമീപനങ്ങളുടെ ഫലമായുണ്ടാകുന്ന പരിണാമങ്ങളെ അവ സ്വാധീനിക്കുന്നു ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന് "പ്രോജക്ട് മാനേജുമെന്റ് തത്ത്വങ്ങൾ" പ്രോജക്റ്റ് അധിഷ്ഠിത നിർദ്ദേശങ്ങളിൽ വിദ്യാർത്ഥികൾ നേടുകയും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ട പ്രധാന അറിവും കഴിവുകളും ഇവയായി കണക്കാക്കപ്പെടുന്നു പ്രോജക്റ്റ് മോണിറ്ററിംഗ് സിസ്റ്റങ്ങൾ എങ്ങനെ സജ്ജീകരിക്കാം നാഴികക്കല്ലുകൾ എങ്ങനെ സജ്ജീകരിക്കാം പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് എങ്ങനെ തയ്യാറാക്കാം ഇവയെല്ലാം പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ വിശാലമായ വിഭാഗത്തിന് കീഴിലുള്ള കഴിവുകളാണ് ഇത് എൻബിഎ വ്യക്തമാക്കിയ പിഒകളിൽ ഒന്ന് പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിൽ ഇത് ഒരു പ്രധാന ഭാഗമാണ് എന്നാൽ ഇത് പ്രബോധനത്തോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിന്റെ ഒരു പ്രധാന സവിശേഷതയല്ല കാരണം ഇത് മുഴുവൻ പ്രവർത്തനങ്ങളെയും ഒരു പ്രോജക്റ്റായി കാണുന്നില്ല അത് അറിവ് തേടുന്നതുപോലെയാണ് പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിന്റെ പ്രധാന സവിശേഷത പ്രോജക്ട് മാനേജുമെന്റ് തത്ത്വങ്ങൾ പ്രശ്നഅധിഷ്ഠിത സമീപനത്തിന്റെ പ്രധാന സവിശേഷതയല്ല നിങ്ങൾ പ്രക്രിയ നോക്കുകയാണെങ്കിൽ പ്രബോധനത്തോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം ചോദ്യം ചോദിക്കുന്നതിനുള്ള പരിവൃത്തി വിവരങ്ങൾ ശേഖരിക്കുക പരിഹാരം പരിഷ്കരിക്കുക ചർച്ച ചെയ്യുക പ്രശ്നം വീണ്ടും സന്ദർശിക്കുക തുടങ്ങിയവ ഉപയോഗിക്കുന്നു അതായത് തത്ത്വത്തിൽ പ്രക്രിയ ഒരു ക്ലാസ് മുറിയിൽ നടപ്പിലാക്കാൻ കഴിയും ഞങ്ങൾക്ക് ചുറ്റും ഒരു റൌണ്ട് ടേബിൾ സ്ഥാപിക്കാൻ കഴിയും കൂടാതെ വിദ്യാർത്ഥികൾ ഇരിക്കുകയും അവർ ശേഖരിച്ച വിവരങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു അത് പ്രശ്നത്തിന് എത്രത്തോളം പ്രസക്തമാണെന്ന് അവർ കാണുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പരിഹാരം കാണാൻ കഴിയുമോ എന്ന് അവർ കാണും അവർക്ക് പരിഹാരം പ്രതിരോധിക്കാൻ കഴിയുമോ എന്നത് പരിഹാരത്തിൽ വിടവുകളുണ്ടെങ്കിൽ കൂടുതൽ എന്ത് വിവരങ്ങൾ ആവശ്യമാണ് ഇവയെല്ലാം പറ്റി അവർ കുറിപ്പുകൾ ഉണ്ടാക്കുന്നു അവർ തിരിച്ചുപോയി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങുകയും തുടർന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ചോദ്യങ്ങൾ ചോദിക്കുക വിവരങ്ങൾ ശേഖരിക്കുക പരിഹാരം പരിഷ്കരിക്കുക കൂടുതൽ ചർച്ച ചെയ്യുക പ്രശ്നം വീണ്ടും സന്ദർശിക്കുക തുടങ്ങിയവയുടെ ഒരു ചക്രമാണിത് മറുവശത്ത് പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ ഫോക്കസ് വ്യത്യസ്തമാണ് ഒരു ഉൽപ്പന്നത്തിന്റെ ഫലമായി ഘട്ടം ഘട്ടമായി ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുക എന്നതാണ് ഫോക്കസ് അതായത് പുരോഗതി നിർദ്ദിഷ്ട ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കണം ആവശ്യകത പൂർത്തിയാക്കണം രൂപകൽപ്പന പൂർത്തിയാക്കണം ആവശ്യമായ വസ്തുക്കൾ ശേഖരിക്കണം ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചിരിക്കണം തീർച്ചയായും അത് പ്രവർത്തിക്കുന്ന പ്രോജക്ടിനെ ആശ്രയിച്ചിരിക്കുന്നു പദ്ധതിയുടെ സ്വഭാവം എന്തുതന്നെയായാലും ആ പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് ഒരു ആർട്ടിഫാക്റ്റിലോ സോഫ്റ്റ്വെയർ പാക്കേജിലോ അല്ലെങ്കിൽ സമ്മതിച്ച ഫോർമാറ്റിലുള്ള പരിഹാരത്തിലോ ആയിരിക്കണം അതിനാൽ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പിബിഐയിലെന്നപോലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി അറിവ് നേടുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു കരകൌ ശലം സൃഷ്ടിക്കാൻ അറിവും നൈപുണ്യവും പ്രയോഗിക്കാൻ പഠിതാക്കളെ പ്രാപ്തരാക്കുന്നു അതിനാൽ സ്വയം പഠനത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളിൽ ചില സമാനതകൾ ഉണ്ടെങ്കിലും കാര്യമായ വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അന്തിമഫലം നിർദ്ദേശങ്ങളോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിൽ നമുക്ക് വ്യത്യസ്ത ചോയിസുകൾ നടത്താം ഒരു പരിഹാരം കെട്ടിപ്പടുക്കുന്നതിന് വിദ്യാർത്ഥികളുടെ ടീമുകൾക്ക് തീർച്ചയായും സാധ്യമാണ് മുൻകൂട്ടി തീരുമാനിച്ച ആവശ്യകതകൾ നിറവേറ്റുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് ഇത് സാധൂകരിക്കണം പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിന്റെ കാര്യത്തിൽ തെളിവ് അവസാനമായി ഉൽപാദിപ്പിക്കുന്ന കരകൌശലം മുൻകൂട്ടി തീരുമാനിച്ച ആവശ്യകതകൾ നിറവേറ്റണം പ്രബോധനത്തോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിലെന്നപോലെ വിദ്യാർത്ഥി ടീമുകൾ പ്രശ്നം തൃപ്തികരമായി പരിഹരിക്കണമെന്ന് അത് നിർബന്ധിക്കുന്നു മറ്റ് ആവശ്യകതകളൊന്നും മുൻകൂട്ടി പ്രസ്താവിച്ചിട്ടില്ല ഈ രണ്ട് ആവശ്യകതകൾ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിൽ മുൻകൂട്ടി ഞങ്ങൾക്ക് ചില ഉപയോക്തൃ ആവശ്യകതകളുണ്ട് അവസാനം കരകൌശലം ആ ആവശ്യകതകൾ നിറവേറ്റണം പ്രശ്ന അധിഷ്ഠിത നിർദ്ദേശങ്ങളിൽ അങ്ങനെയല്ല ചെലവ് ആവശ്യമായ വിഭവങ്ങൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി ഇത് താരതമ്യം ചെയ്യാം എന്നാൽ പൊതുവേ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം കൂടുതൽ ജനപ്രിയമാണെന്ന് തോന്നുന്നു കാരണം പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിനിടയിൽ വിദ്യാർത്ഥി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പ്രൊഫഷണൽ എഞ്ചിനീയർമാർ യഥാർത്ഥത്തിൽ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി കൂടുതൽ യോജിക്കുന്നതായി തോന്നുന്നു പ്രോഗ്രാം പാഠ്യപദ്ധതിയിൽ പ്രശ്ന അധിഷ്ഠിത നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രോജക്റ്റ് അധിഷ്ഠിത നിർദ്ദേശങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഞങ്ങൾ നേരിട്ട അതേ പ്രശ്നങ്ങൾ ഇവിടെയും ദൃശ്യമാകും ചില സ്ഥാപനങ്ങളിൽ പിബിഐ ഉപയോഗിച്ചാണ് മെഡിക്കൽ പ്രൊഫഷണലിലെ മുഴുവൻ പ്രോഗ്രാമുകളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ അത്തരമൊരു സമീപനം വളരെ അപൂർവമാണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലെ പിബിഐ പലപ്പോഴും ചെറിയ എണ്ണം കോഴ്സുകളിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു പിബിഐയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വലിയ പ്രശ്നങ്ങൾ എഞ്ചിനീയറിംഗ് ഡൊമെയ്നിൽ ഇതുവരെ ലഭ്യമല്ല അതേസമയം അത്തരം വലിയ സെറ്റുകൾ മെഡിക്കൽ ഡൊമെയ്നിൽ ലഭ്യമാണ് സ്ഥാപനങ്ങൾ തങ്ങളുടെ പ്രോഗ്രാമുകളിൽ എത്രത്തോളം പിബിഐയെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പരീക്ഷിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ പിബിഐയുടെ ഉപയോഗം സംബന്ധിച്ച് സാഹിത്യത്തിൽ റിപ്പോർട്ടുചെയ്ത എല്ലാ കേസ് പഠനങ്ങളും ഈ സമീപനം വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ സംസാരിക്കൂ ഒരുപക്ഷേ ഒരു സെമസ്റ്ററിലെ ഒന്നോ രണ്ടോ കോഴ്സുകളെ സഹായിക്കാൻ മിക്കപ്പോഴും രണ്ടോ മൂന്നോ സെമസ്റ്ററുകളിൽ മാത്രം മെഡിക്കൽ വിദ്യാഭ്യാസത്തെ പാഠ്യപദ്ധതിയിൽ ഉള്ളതുപോലെ ഇത് വ്യാപകമായി ഉൾപ്പെടുത്തിയിട്ടില്ല 2 മുതൽ 4 സെമസ്റ്റർ വരെയാകാം 1 മുതൽ 2 വരെ കോഴ്സുകൾക്ക് പകരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി സാഹചര്യ നടപ്പാക്കൽ പ്രശ്നങ്ങൾ ഉണ്ട് വിശാലമായ സാർവത്രിക തത്ത്വങ്ങൾ എല്ലായിടത്തും മികച്ചതാണെങ്കിലും നിർദ്ദിഷ്ട സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യാസങ്ങളുണ്ട് വലിയ ക്ലാസ് വലുപ്പമായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി 5 മുതൽ 7 വരെയുള്ള ചെറിയ ഗ്രൂപ്പുകളുമായി മാത്രമേ പിബിഐ മികച്ച രീതിയിൽ പ്രവർത്തിക്കൂ കാരണം അവർ പരസ്പരം വളരെ അടുത്ത് ഇടപഴകേണ്ടതുണ്ട് അവർ ചർച്ചചെയ്യേണ്ടതുണ്ട് കൂടാതെ പരിഹാരങ്ങൾ പരിഷ്കരിക്കേണ്ടതുമാണ് വളരെ ചെറിയ ടീം വലുപ്പം പിബിഐ സമീപനത്തിന് അനുയോജ്യമാണ് കൂടാതെ "അത്തരം ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച് ഈ ഗ്രൂപ്പുകളെല്ലാം ഒരേ പ്രശ്നത്തിൽ പ്രവർത്തിപ്പിക്കുക" എന്നത് പരിഹാരങ്ങളിലൊന്നാണ് അതായത് നിങ്ങൾ ചെറിയ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുകയാണെങ്കിലും എല്ലാ ഗ്രൂപ്പുകൾക്കും ഒരേ പ്രശ്നം നൽകുക ഞങ്ങൾക്ക് ഒന്നിലധികം ദ്രവ്യസമുച്ചയം നൽകാൻ കഴിയും ഇത് ഇൻസ്ട്രക്ടറുടെ ഭാരം കുറയ്ക്കും അല്ലാത്തപക്ഷം നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അവരെ നിരീക്ഷിക്കൽ വിഭവങ്ങൾ നൽകൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് തെളിഞ്ഞേക്കാം ഒന്നിലധികം പ്രശ്നങ്ങൾക്കായി ടീമുകൾ ഒരുമിച്ച് നിൽക്കട്ടെ അതുവഴി സഹകരണ പ്രവർത്തനത്തിന്റെ പ്രയോജനങ്ങൾ അവർക്ക് മനസ്സിലാക്കാനാകും അതിനർത്ഥം ദീർഘകാലത്തേക്ക് ഒരേ ടീമുകൾ വ്യത്യസ്ത പ്രശ്നങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കട്ടെ ഗ്രൂപ്പുകളെ പരിഷ്കരിക്കരുത് ധാരാളം ചെറിയ ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് തന്ത്രങ്ങൾ ആവശ്യമാണ് അപ്പോൾ പഠിതാവിന് വിമുഖതയുണ്ടാകാം ആദ്യമായി പിബിഐയെ അഭിമുഖീകരിക്കുന്ന പഠിതാക്കൾക്ക് പിബിഐയിൽ അസ്വസ്ഥതയുണ്ടാകാം പ്രത്യേകിച്ചും മുമ്പത്തെ അനുഭവം വിദ്യാർത്ഥികളെ അധ്യാപകനെ ആശ്രയിച്ചുള്ള പഠനരീതിയിൽ തികച്ചും സുഖകരമാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം അധ്യാപകൻ നിയന്ത്രിക്കുന്നു ടീച്ചർ തീരുമാനിക്കുകയും എല്ലാ വിവരങ്ങളും നൽകുകയും ചെയ്യുന്നു കൂടുതലോ കുറവോ വിദ്യാർത്ഥികൾക്ക് നിഷ്ക്രിയ വേഷങ്ങൾ കൈകാര്യം ചെയ്യാനും അത് ഉപയോഗിച്ച് ചെയ്യാനും കഴിയും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തമില്ല ഈ പഠനരീതിയിൽ അവർ പരിചിതരാണെങ്കിൽ അവർക്ക് എല്ലാം നൽകുന്നതിന് അവർ എല്ലായ്പ്പോഴും അധ്യാപകനെ നോക്കാം ചിലതരം കോരിക്കൊടുത്തു വളർത്തൽ പക്ഷേ പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിന് വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഗണ്യമായ ശ്രമം ആവശ്യമാണ് അതിനാൽ തുടക്കത്തിൽ അവർ വിമുഖത കാണിച്ചേക്കാം ധാരണ സ്വതന്ത്ര ഗവേഷണം ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുക എന്നിവ ആവിഷ്കരിക്കുന്നത് അവർക്ക് വളരെയധികം ഭാരമായി തോന്നാം ഈ സമീപനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ പരിചയമില്ലെങ്കിൽ അധ്യാപകർ അവരുടെ പഠന പ്രക്രിയയുടെ തട്ടുകളുടെ വിന്യാസത്തിൽ ഗണ്യമായ ശ്രമം നടത്തണം പ്രശ്നത്തിന്റെ തരവും സങ്കീർണ്ണതയും പഠിതാക്കളുടെ പക്വതയുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് ഇതും വളരെ പ്രധാനമാണ് പ്രശ്നം വളരെ എളുപ്പമാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ശരിക്കും പരിശ്രമിക്കാൻ ഒരു പ്രേരണയും ഉണ്ടാകില്ല പ്രശ്നം വളരെ സങ്കീർണ്ണമാണെങ്കിൽ പഠിതാക്കൾക്ക് താൽപ്പര്യം നഷ്ടപ്പെടാം മാത്രമല്ല അവർ ഒരുതരം നിരാശാജനകമായ രീതിയിൽ ആയിത്തീരുകയും പ്രശ്നത്തിൽ നിന്നും പിന്തിരിയുകയും ചെയ്യാം പിബിഐയുടെ വിജയത്തിന് ഇൻസ്ട്രക്ടറുടെയും ഓർഗനൈസേഷന്റെയും മൊത്തം പ്രതിബദ്ധത അത്യാവശ്യമാണ് വ്യക്തമായും പിബിഐ അതിന്റെ യഥാർത്ഥ മനോഭാവത്തിൽ നടപ്പാക്കണം വിദ്യാർത്ഥികൾ പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങൾ നിയോഗിക്കുക മാത്രമല്ല പരമ്പരാഗതമായി അവശേഷിക്കുന്ന പഠന സന്ദർഭം മറ്റെല്ലാം തുല്യമാണ് എന്ന അർത്ഥത്തിൽ ഞങ്ങൾ ചില അസൈൻമെന്റുകൾ നൽകുകയും അവരോട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അത് പ്രശ്ന അടിസ്ഥാനമാക്കിയുള്ള സമീപനമായി മാറില്ല പിബിഐയുടെ വിജയത്തിന് ഉചിതമായ അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യമാണ് അവർക്ക് ഒരു ഗ്രൂപ്പായി ഒരുമിച്ച് ഇരിക്കാനും ചർച്ച ചെയ്യാനും ഇൻസ്ട്രക്ടർക്ക് നിരീക്ഷിക്കാനും കഴിയുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം അവർക്ക് കുറിപ്പുകൾ നിർമ്മിക്കാൻ കഴിയും പിബിഐയുടെ വിജയത്തിനായുള്ള മറ്റൊരു താക്കോൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഓരോ പ്രക്രിയ ഘട്ടത്തിലും വിവരങ്ങളുടെയും ആശയവിനിമയഉപകരണങ്ങളുടെയും വിപുലമായ ഉപയോഗമായിരിക്കും പ്രത്യേകിച്ചും പ്രതിഫലന ജേർണലുകളുടെ റെക്കോർഡിംഗ് ചർച്ചയുടെ നടപടിച്ചുരുക്കം റെക്കോർഡുചെയ്യൽ അവരുടെ ഗവേഷണ കണ്ടെത്തലുകൾ പങ്കിടൽ ഇവയെല്ലാം ഉചിതമായ ഐസിടി ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ നടപ്പാക്കൽ പ്രക്രിയ ഗണ്യമായി ലഘൂകരിക്കുകയും പിന്നീടുള്ള അവലോകനത്തിനായി രേഖകൾ ലളിതമാക്കി സൂക്ഷിക്കുകയും ചെയ്യും പ്രശ്നഅധിഷ്ഠിത നിർദ്ദേശങ്ങളുടെ സമീപനം വിജയകരമാകണമെങ്കിൽ സ്ഥാപനങ്ങൾ വളരെ വലിയ തോതിൽ ഐസിടി സ്വീകരിക്കണം തീർച്ചയായും ഈ സമീപനമില്ലാതെ പോലും ഐസിടിയുടെ ഉപയോഗം വളരെ അത്യാവശ്യമാണ് അതിനാൽ ഇത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള മൂല്യവത്തായ നിക്ഷേപമായിരിക്കും പക്ഷേ പിബിഐയുടെ വിജയത്തിന് ഐസിടിയുടെ വിപുലമായ ഉപയോഗം വളരെ സഹായകരമാകും അഭ്യാസം നിങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സുകളിൽ സാധ്യതയും അഭിലഷണീയതയും ചർച്ച ചെയ്യുക ഈ അഭ്യാസത്തിന്റെ ഫലങ്ങൾ പങ്കിട്ടതിന് നന്ദി story com അടുത്ത യൂണിറ്റിൽ നിർദ്ദേശങ്ങളോടുള്ള പരീക്ഷണാത്മക സമീപനം ഞങ്ങൾ പരിശോധിക്കും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനായി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ വരുന്ന മൂന്ന് പ്രധാന മാറ്റങ്ങളാണ് പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം പ്രബോധനത്തോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനം ഞങ്ങൾ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനവും തുടർന്ന് പ്രശ്ന അധിഷ്ഠിത സമീപനവും നോക്കി അടുത്ത യൂണിറ്റിൽ പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനം ഞങ്ങൾ നോക്കും നന്ദി അതുവരെ ബൈ